കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു മുഖത്തിന്റെ മസിലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്നുണ്ട് എന്നും മനുഷ്യരുടെ വ്യക്തിനിഷ്ഠമായ ആയ വൈകാരിക അനുഭൂതിയെ സംബന്ധിച്ച് കാതലായ വിവരങ്ങൾ നൽകാൻ അതിന് സാധിക്കുന്നു എന്നും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വളരെയേറെ ഭാവപ്രകടനങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ അത്തരം ഭാവപ്രകടനങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധകേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കുറച്ചു കൂടി ഭംഗിയായി മനസ്സിലാക്കുന്നതിനുവേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തിയ ചില ഭാവപ്രകടനങ്ങളെ പറ്റിയും യഥാർത്ഥമായ ജീവിതത്തിൽ നിന്നും കടം കൊണ്ട ചില ഭാവപ്രകടനങ്ങളെ പറ്റിയും നമ്മൾ ഇവിടെ വിശദമായി ചർച്ച ചെയ്യും ഈ വീഡിയോയിലേക്ക് നോക്കൂ ആ സ്ത്രീയുടെ മുഖത്ത് സ്നേഹം പ്രതിബിംബിക്കുന്നത് കാണൂ ഇതാ ഈ ചിത്രത്തിൽ ആ സ്ത്രീയുടെ മുഖത്ത് പ്രതിബിംബിക്കുന്നത് ശൌര്യമാണ് ഈ ചിത്രത്തിൽ ആകട്ടെ ആ സ്ത്രീയുടെ മുഖത്ത് ദുഃഖം പ്രതിബിംബിച്ചു കാണുന്നു നർമ്മം പ്രതിബിംബിച്ചു കാണുന്ന മുഖമാണ് ഈ ചിത്രത്തിലേത് നോക്കൂ ഈ ചിത്രത്തിൽ ആ സ്ത്രീ എങ്ങനെയാണ് അത്ഭുതത്തെ മുഖത്ത് പ്രകടിതമാക്കുന്നത് എന്ന് ദുഃഖം പ്രതിബിംബിക്കുന്ന മുഖവുമായി ഈ ചിത്രം ഈ ചിത്രത്തിലെ മുഖത്ത് വെറുപ്പാണ് പ്രതിബിംബിച്ച് കാണുന്നത് ഇതാ കോപിക്കുന്ന ഒരു മുഖം ഈ ചിത്രത്തിൽ നമുക്ക് കാണാം സ്വാസ്ഥ്യം അല്ലെങ്കിൽ പ്രശാന്തത പ്രതിബിംബിക്കുന്ന മുഖമാണിത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് കല അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നൽകപ്പെട്ട വികാരങ്ങളെ തൻറെ മുഖത്ത് പ്രതിബിംബിച്ചു കാണിക്കുവാൻ അവളോടാവശ്യപ്പെട്ടതനുസരിച്ച് അവൾ ചെയ്യുകയായിരുന്നുവെന്നും ഓരോ വികാരവും അവളുടെ മുഖത്ത് പ്രകടിപ്പിക്കുമ്പോഴും വ്യക്തമായ വ്യത്യാസങ്ങൾ അവളുടെ മുഖത്തെ മസിലുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ മുഖത്തെ മാംസപേശികളുടെ ഒരു വിശകലനം നടത്തി പഠിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതകരമായ ഒരു പഠന മേഖലയിലേക്ക് ആയിരിക്കും എത്തിപ്പെടുക പോൾ എക്മാൻ എന്ന മനശാസ്ത്രജ്ഞൻ ഏതാനും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരോട് ചില വികാരങ്ങൾക്ക് ഭാവം നൽകുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം അവരോട് അവർ ഭാവം നൽകേണ്ട വികാരത്തിൻറെ പേര് പറയുകയല്ല ചെയ്തത് മറിച്ച് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുഖത്ത് മാംസപേശികളെ ചലിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇപ്രകാരം നൽകപ്പെട്ട നിർദ്ദേശങ്ങളനുസരിച്ച് മാംസപേശികളെ ചലിപ്പിക്കുക വഴി ഏതെങ്കിലും ഒരു വികാരത്തിൻറെ പേര് പറഞ്ഞു അതിന് ഭാവം നൽകാൻ ആവശ്യപ്പെടാതെ തന്നെ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട മുഖ ഭാവങ്ങളെ ലഭിച്ചു ഈയൊരു ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ കാണുന്ന ഈയൊരു ചിത്രം എപ്രകാരമാണ് നമ്മുടെ മുഖത്ത് വിവിധങ്ങളായ മാംസപേശികൾ വ്യാപിച്ചുകിടക്കുന്നത് എന്ന് നമ്മോട് പറഞ്ഞുതരുന്നു ഈ മാംസപേശികളുടെ ചലനങ്ങളാണ് അടിസ്ഥാനപരമായി നമ്മുടെ മുഖത്ത് കാണുന്ന വ്യത്യസ്തങ്ങളായ വികാരപ്രകടനങ്ങളും ഭാവങ്ങളും വിരിയിക്കുന്നതിന് കാരണമാകുന്നത് ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ പോൾ എക്മാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയുമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു വികാരത്തെ അനുഭവിക്കുന്നു നിങ്ങൾ ഒരു വികാരം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിന്ന് അത് മറ്റൊരാൾ മനസ്സിലാക്കുന്നു ഇവിടെ ഈ കാര്യത്തിൽ വ്യക്തി നൽകുന്ന നിർദേശങ്ങൾ പിന്തുടരുവാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത് ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകളെ തമ്മിൽ അകറ്റി പിടിക്കണം അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രകടനങ്ങളും ഇല്ല അദ്ദേഹം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മാംസപേശികളുടെ ചലനത്തിലൂടെ നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന ഭാവത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുഖത്ത് മാംസപേശികളുടെ ചലനം സാധ്യമാക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൽ പ്രകടമായ വ്യത്യാസം കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുവാൻ വേണ്ടി ഫോട്ടോ സെഷന് സമ്മതം തന്ന കോളേജ് പ്രൊഫസർ സോത്യാകി റോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അദ്ദേഹം ചില വികാരങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് പോസ് ചെയ്ത ചില ഫോട്ടോഗ്രാഫുകൾ ആണ് ഇപ്പോൾ ഞാൻ പോൾ എക്മാനെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു സ്വപ്രേരണയാൽ നിയന്ത്രിതമായ രീതിയിലുള്ള മുഖത്തെ മാംസപേശികളുടെ ചലനങ്ങൾ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ബോധപൂർവ്വമല്ലാത്ത ചില പ്രവർത്തനങ്ങൾക്ക് പ്രേരകമായി തീരുന്നു നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലിണ്ടാകുന്ന ഈ വ്യതിയാനം പ്രകടിപ്പിച്ച വികാരവുമായി ബന്ധപ്പെട്ടതാകണം എന്നില്ല മറിച്ച് തനതായ ഒരു ചലനം ആയിരിക്കാം ശരീരത്തിലുണ്ടായ ഈ ചലനവും പ്രകടിപ്പിച്ച ഭാവവും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷേ പഠിക്കാൻ സാധിക്കും അത് അത്ര കഠിനമായ അധ്വാനമല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മുഖത്തിൻറെ ഇടതുവശത്ത് വലതുവശത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമായ തീവ്രമായ ഭാവപ്രകടനം ഉണ്ടായിരിക്കുമെന്ന് മുഖത്തെ മാംസപേശികളുടെ വിശകലനവും നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് മുഖത്തിന്റെ ഇടതുവശത്ത് വലതുവശത്തെ അപേക്ഷിച്ച് കൂടുതൽ തീവ്രമായ ഭാവപ്രകടനം ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ മാംസപേശികളുടെ വിശകലനത്തിലൂടെയും പെരുമാറ്റ ശൈലിയുടെ വിശകലനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരേ കാര്യമാണ് അതായത് മുഖത്തിന്റെ ഇടതുവശം കുറച്ചുകൂടെ തീവ്രമായ ഭാവപ്രകടനത്തെ വെളിവാക്കുന്നു ഇനി കൂടുതൽ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നാൽ നിങ്ങളുടെ അറിവിലേക്കായി മാത്രം പറയുകയാണ് കോഡിംഗ് സിസ്റ്റം നിലവിലുണ്ട് മാംസപേശികളുടെ വിശകലനം മനസ്സിലാക്കുന്നതിനു സഹായിക്കുന്ന പ്രത്യേകമായ സോഫ്റ്റ്വെയറുകളും അതിനുവേണ്ടി മാത്രം ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകളും ലഭ്യമാണ് അത്തരത്തിലുള്ള ആദ്യത്തെ സോഫ്റ്റ്വെയർ ആണ് FACS ദ ഫേഷ്യൽ ആക്ഷൻ കോഡിംഗ് സിസ്റ്റം 1978ലാണ് ഇതാദ്യം പുറത്തുവരുന്നത് പോൾ എക്മാനും ഫ്രൈസനും ആണ് ഇതിൻറെ പേരിൽ ഉള്ള ബഹുമതി ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തേതാണ് മാക്സ് മാക്സിമലി ഡിസ്ക്രിമിനേറ്റീവ് ഫേഷ്യൽ മൂവിംഗ് കോഡിംഗ് സിസ്റ്റം ഇതിൻറെ ഉപജ്ഞാതാവ് ഇസാഡ് ആണ് അടുത്ത ഒരെണ്ണം ഫീറ്റ് ആണ് ഫേഷ്യൽ എക്സ്പ്രഷൻ അനാലിസിസ് ടൂൾ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ വേറെ വേറെ സംവിധാനങ്ങളും ഇപ്പോൾ ലഭ്യമാണ് കമ്പ്യൂട്ടറുകൾ ഉൽപാദിപ്പിക്കുന്ന വിശകലനം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന വിശകലനങ്ങൾ എന്നു തുടങ്ങി തീർത്തും പെരുമാറ്റ സവിശേഷതകൾ അളക്കുന്നതിനുള്ള സംവിധാനം കൂടാതെ വികാരങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള ഫിസിയോളജിക്കൽ മെഷർ ചേഞ്ചസ് ഇൻ ദ എഎൻഎസ് ആക്ടിവിറ്റീസ് ഇവയും ലഭ്യമാണ് നിങ്ങൾ ഇപ്പോൾ ഈ മുഖത്തേക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ ആ മുഖത്തെ ഭാവം കാണുന്നുണ്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ആ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് കാണുന്ന മാംസപേശികളുടെ വിശകലനത്തിലൂടെ മുഖഭാവത്തെ അതായത് മുഖത്ത് പ്രകടിതമായ ഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മുഖത്ത് കാണുന്ന ആ വികാരപ്രകടനം വളരെ വളരെ കൃത്യമാണ് സ്പഷ്ടമാണ് കാരണം നിങ്ങൾ ഇപ്പോൾ നോക്കുന്നത് ആ കണ്ണുകളിലേക്കാണ് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഉൾവശത്തെ പുരികങ്ങൾ ഉയർന്നുനിൽക്കുന്നതാണ് മാത്രമല്ല വലതുവശത്ത് ഫ്രൊണ്ടാലിസ് എന്ന മാംസപേശിയും പാർസ് മെഡിയാലിസ് എന്ന മാംസപേശിയും നമ്മൾ കാണുന്നു അടിസ്ഥാനപരമായി ഈ രണ്ടു മാംസപേശികളാണ് കണ്ണിൻറെ ഉൾവശത്തെ പുരികങ്ങൾ ഉയർത്തുന്നതിന് സഹായിക്കുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾ മറ്റൊരു വികാരപ്രകടനം കാണുകയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് പുറത്തുള്ള കൺ പുരികങ്ങളുടെ ചലനമാണ് പുറത്തുള്ള കൺ പുരികങ്ങളെ ചലിപ്പിക്കുന്നതും നേരത്തെ പറഞ്ഞ രണ്ട് മാംസപേശികൾ തന്നെയാണ് അതായത് ഫ്രൊണ്ടാലിസ് എന്ന മാംസപേശിയും പാർസ് മെഡിയാലിസ് എന്ന മാംസപേശിയും ഈ ചിത്രത്തിൽ നിങ്ങൾ കോപം പ്രദർശിപ്പിക്കുന്ന ഒരു മുഖമാണ് കാണുന്നത് ഇതിൽ പുരികങ്ങൾ താഴ്ന്നിരിക്കുന്ന സ്ഥിതിയിലാണ് കൺപുരികങ്ങൾ താഴ്ത്തി വയ്ക്കാൻ സഹായിക്കുന്നത് മൂന്ന് മാംസപേശികൾ ആണ് അവ സൂപ്പർസിലി കൊറുഗേറ്റേഴ്സ് ഡിപ്രസ്സർ എന്നീ മാംസപേശികൾ ആണ് ഇവിടെ ഈ ചിത്രത്തിൽ മറ്റൊരു ഭാവമാണ് നമ്മൾ കാണുന്നത് ഇവിടെ പുരികങ്ങൾ കൊണ്ട് മാത്രമല്ല ചുണ്ടുകൾ കൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ആ ഒരു വികാരത്തിന്റെ ബോധം നൽകുന്നത് ഇതാ ഇവിടെ മറ്റൊരു വികാരപ്രകടനം ഇവിടെ കവിളുകൾ ഉയർന്ന് നിൽക്കുന്നുണ്ട് ഓർബിക്കുലേറിസ് ഒക്യൂലി എന്ന മാംസപേശിയും പാർസ് ഓർബിറ്റാലിസ് എന്ന് മാംസപേശിയുമാണ് ഇത്തരമൊരു ചലനത്തിന് നമ്മെ സഹായിക്കുന്നത് ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് വെറുപ്പ് നിറഞ്ഞ ഒരു മുഖമാണ് ഇവിടെ കൺപോളകൾ മുറുക്കി പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് ചിത്രത്തിൽ നമ്മൾ കാണുന്നത് വളരെ ഉയർന്ന ഡിഗ്രിയിൽ ഉള്ള ഒരു വെറുപ്പിന്റെ ഭാവമാണ് നിങ്ങൾ പറയുമായിരിക്കും ചുളിവുകൾ ആ ചിത്രത്തെ വളരെ വളരെ സ്പഷ്ടമാക്കുന്നു എന്ന് ഇത് മറ്റൊരു വികാരമാണ് ഭാവ പ്രകടനത്തിൽ വ്യത്യാസം കാണുന്നു ഇവിടെ നിങ്ങൾ അപ്പർ ലിപ് റെയ്സർ കാണുന്നു ഡീപ്പ്നർ കാണുന്നു ലിപ്പ് പുള്ളർ കാണുന്നു ചീക്ക് പഫർ കാണുന്നു ഇതാണ് ആ ഭാവ വ്യത്യസത്തിനു സഹായിച്ച വിവിധങ്ങളായ മാംസപേശികളുടെ ചലനങ്ങൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ചുണ്ടുകളുടെ ചലനങ്ങളുടെ വ്യത്യാസമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഡിംബ്ളർ ലിപ് കോർണർ ഡിപ്രസ്സർ ലോവർ ലിപ് ഡിപ്രസ്സർ പിന്നെ ചിൻ റെയ്സർ എന്നിവയാണ് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവയോരോന്നും നിർവഹിക്കുന്നത് ഇവിടെ ഭാവപ്രകടനങ്ങൾ വളരെ സ്പഷ്ടമാണ് കാരണം പ്രത്യേകമായ മാംസ പേശികളുടെ ചലനമാണ് ഇവിടെ സാധ്യമായിരിക്കുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന വ്യതിയാനങ്ങൾ നിങ്ങൾ ഒന്നു നോക്കൂ ഇതാണ് നമ്മൾ നമ്മുടെ അനുദിനജീവിതത്തിൽ കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ലിപ് പക്കർ ലിപ് സ്ട്രച്ചർ ലിപ് ടൈറ്റ്നർ ലിപ് ഫണലർ എന്നിവയാണ് മാംസപേശികളുടെ ഈ ചലനങ്ങളെ അടിസ്ഥാനമാക്കി ചുണ്ടുകളിലും ചുണ്ടുകളുടെ ചുറ്റിലുമുള്ള പ്രദേശങ്ങളിലും ഭാവം വിരിയുന്നു അഥവാ ഭാവവ്യത്യാസം സംഭവിക്കുന്നു ഭാവ പ്രകടനത്തിലുള്ള വ്യത്യാസം ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുനോക്കൂ ഇവിടെ നമ്മൾ കാണുന്നത് ലിപ് പ്രസ്സർ ലിപ്സ് പാർട്ട് ദ ജോ ഡ്രോപ്പ് ദ മൌത്ത് സ്ട്രച്ച് എന്നിവയാണ് ഇവിടെ ഭാവ പ്രകടനത്തിലെ തീവ്രതയിൽ വ്യത്യാസം കാണുന്നുണ്ട് കാരണം ചില മാംസപേശികൾ വ്യത്യസ്തമായ രീതിയിലാണ് ചലിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെയും മനുഷ്യരുടെ ഭാവപ്രകടനങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഹ്യൂമനോയ്ഡ് റോബോട്ടുകളുടെ കാര്യത്തിൽ അവയുടെ വികാസത്തിൽ വളരെയധികം ഗവേഷണങ്ങളും പഠനങ്ങളും ആണ് നടന്നു കൊണ്ടിരിക്കുന്നത് എന്ന് കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷേ അത്ഭുതപ്പെടും ജപ്പാനിൽ ഉള്ള ടാക്കാനിഷി ലാബിൽ മനുഷ്യരെപ്പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന മനുഷ്യ റോബോട്ടുകളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഹ്യൂമനോയ്ഡ് റോബോട്ടുകളുടെ വിഷയത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ ഗവേഷണങ്ങളും അവയുടെ വളർച്ചയും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് മനുഷ്യരുടെ മുഖ ഭാവങ്ങളെ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ശ്രദ്ധിക്കൂ നമ്മൾ ഇതുവരെ കണ്ടത് മുഴുവൻ എൻറെ ഒരു സുഹൃത്ത് ഇത് പോസ് ചെയ്തു അതു ഫോട്ടോയെടുത്ത പോസ്ഡ് ഇമോഷൻസ് ആയിരുന്നു പിന്നീട് നമ്മൾ ടാക്കാനിഷി ലാബിൽ നിന്നുള്ള റോബോട്ടുകളുടെ പ്രകടനങ്ങളും കണ്ടു ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങളിലേക്ക് നിങ്ങൾ ഒന്നു നോക്കൂ ഇത് ഇന്ത്യയിൽനിന്നുള്ള വളരെയധികം പേരുകേട്ട 2 കായികതാരങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ അപ്പോഴപ്പോൾ സംഭവിച്ച ഭാവപ്രകടനങ്ങളാണ് പ്രവർത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് എന്താണ് അവരുടെ മുഖത്ത് ഉള്ളത് അതൊരു കായികതാരം ചാടാൻ ഒരുങ്ങുന്നതിന്റെ ചിത്രം അല്ലേ അത് അങ്ങേയറ്റം ക്ലേശകരമായ ഒരു പ്രവർത്തി അല്ലേ ആ കായികതാരത്തിന് നേടാൻ സാധിക്കുന്ന അവൾ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം അവൾ അവളുടെ ഭാവനയിൽ കാണുന്നില്ലേ അവളുടെ മുഖത്തെ ഭാവ പ്രകടനത്തിൽ അതും കൂടെ തെളിഞ്ഞു കാണുന്നില്ലേ ഇപ്പുറത്ത് ആ ടെന്നീസ് കളിക്കാരന്റെ മുഖത്ത് എന്താണ് കാണുന്നത് അത് സന്തോഷമാണോ ആത്മാഭിമാനമാണോ അതോ താൻ ആരെയോ തോൽപ്പിച്ചു എന്ന ഒരു അറിവാണോ ജീവിതത്തിലുള്ള ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുക എന്നത് വളരെ രസകരമാണ് ഈ ചിത്രത്തിൽ കാണുന്ന രണ്ടാളുകളുടെ ഭാവപ്രകടനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുനോക്കൂ ആദ്യം ആ ടെന്നീസ് കളിക്കാരനിലേക്ക് നോക്കൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ കണ്ട കളിക്കാരൻ തൻറെ കളി ജയിച്ചിരുന്നു അപ്പോൾ അയാളുടെ ഭാവപ്രകടനം എന്തായിരുന്നു ഇപ്പോൾ ഈ ചിത്രത്തിലുള്ള കളിക്കാരൻ അയാളെ നോക്കൂ അദ്ദേഹത്തിന്റെ ഭാവ പ്രകടനം നോക്കൂ തൊട്ടപ്പുറത്ത് രണ്ട് സ്ത്രീ കായികതാരങ്ങൾ അവിടെ നിങ്ങൾക്ക് വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുമോ അവർ കളി ജയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവർ വികാരഭരിതരായിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കളി നഷ്ടപ്പെട്ടിരിക്കുന്നു അഥവാ അവർ കളിയിൽ തോറ്റിരിക്കുന്നു അതുകൊണ്ടാണ് അവർ വികാരഭരിതരായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ കായികരംഗത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെയധികം ഭാവപ്രകടനങ്ങളുണ്ട് അവിടെ ഭാവപ്രകടനങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കുക എന്നത് അത്യന്തം ദുഷ്കരവും ആണ് ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഇന്ത്യയുടെ റെസ്റ്റ്ലർ സുശീൽകുമാർ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായപ്പോഴുള്ള അദ്ദേഹത്തിൻറെ ഭാവപ്രകടനം ആണിത് നോക്കൂ അദ്ദേഹം എന്തുമാത്രം മാസ്മരികമായ ഒരു ലോകത്താണ് എന്ന് ഇവിടെ മറ്റൊരു മുഖത്തേക്ക് നോക്കൂ ഗുജറാത്ത് കലാപത്തിന്റെ കാലത്ത് പ്രസിദ്ധം ചെയ്യപ്പെട്ട അതീവ വികാരതരളിതമായ ഒരു ചിത്രമാണിത് ആ മുഖത്തെ ഓരോ മാംസപേശികളും അതിനു സാധിക്കുന്നതിന്റെ പരമാവധി വലിഞ്ഞുമുറുകി ഇരിക്കുകയാണ് അങ്ങനെ ഒരു ഭാവം ആണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കി ഇരിക്കുന്നതിന് വേണ്ടി ആ മാംസ പേശികളുടെ ചലനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷേ ആ മുഖത്ത് പ്രത്യക്ഷമാകുന്നത് വളരെ വളരെ അസാമാന്യമായ ഒരു ഭാവമാണ് അതാണ് ലോകം കാണുന്നത് കലാകാരന്മാരെ അവർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും എൻറെ ഒരു സഹപ്രവർത്തക അവൾ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ ഭാവപ്രകടനങ്ങൾ വരച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് ഷൂട്ട് ചെയ്യുവാൻ എന്നെ അനുവദിച്ചു നിങ്ങൾ അതു നോക്കി മനസ്സിലാക്കണം പെൻസിൽ ഉപയോഗിച്ച് അവൾ ഓരോ പ്രാവശ്യവും വരയ്ക്കുന്നത് അടിസ്ഥാനപരമായി ഭാവങ്ങളിലുള്ള വ്യത്യാസത്തെ വ്യതിരിക്തമായി കാണിക്കുന്നതിന് വേണ്ടിയാണ് അത് പ്രധാനമായും പ്രതിനിധാനം ചെയ്യുന്നത് മാംസപേശികളിൽ ഉള്ള വ്യതിയാനത്തെ തന്നെയാണ് അതുതന്നെയാണ് നമ്മൾ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നതും ഇവിടെ ഒരു കലാകാരനെ നിങ്ങൾ കാണുകയാണ് അദ്ദേഹം ഒരു മനുഷ്യൻറെ മുഖം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെൻസിലിന്റെ ഓരോ ചലനങ്ങളും ആ പെൻസിൽ കൊണ്ടുള്ള ഓരോ വരയും വാസ്തവത്തിൽ പ്രത്യേകമായ ഭാവങ്ങളെ കുറച്ചുകൂടി ഭാവതീവ്രമാക്കി മുഖത്ത് സ്പഷ്ടമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് കണ്ണുകളും പുരികങ്ങളും സാവകാശം ചുണ്ടുകളും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ മുഖത്തുള്ള ഭാവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ മുഖത്തുള്ള വികാരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ വീണ്ടും പ്രത്യേകമായ രീതിയിൽ പെൻസിൽ കൊണ്ട് അതിൽ വരയ്ക്കുകയാണ് ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ മുഖത്ത് എന്ത് വികാരമാണ് പ്രകടിതമാകുന്നത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും ചിത്രകലയെ കണ്ടുകൊണ്ട് അതിലുള്ള വികാരത്തെ മനസ്സിലാക്കുന്നതിന് തീർച്ചയായും നമുക്ക് കൊത്തുപണി ഉണ്ട് ഫിഗറേറ്റീവ് ആർട്ട്സ് ഉണ്ട് മണൽ കൊണ്ടുള്ള കലാരൂപങ്ങൾ ഉണ്ട് കല്ലുകൊണ്ടുള്ള കൊത്തുപണികളുണ്ട് കൈ കൊണ്ട് സ്വതന്ത്രമായി വരയ്ക്കുന്ന രീതി ഉണ്ട് അവിടെയാണ് കലാകാരന്മാർ എപ്പോഴും വരകളുടെ എണ്ണം കൂട്ടിയും കുറച്ചും എല്ലാം മുഖത്ത് ഭാവങ്ങളുടെ തീവ്രത ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുവഴിയാണ് മുഖത്ത് വികാരങ്ങൾക്ക് വ്യതിയാനങ്ങൾ വരുത്തുന്നതും ഇപ്പോൾ നിങ്ങൾ ഈ കലാകാരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാമോ മുഖത്തെ മാംസപേശികൾ വികാരങ്ങളെ ഭാവതീവ്രമായി അവതരിപ്പിക്കുന്നതിന് വലിയ പങ്കു വഹിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് ഒരു കലാകാരനും അത് സാധിക്കുകയില്ല ഒരു കലാകാരനും ഏതൊരു മാംസപേശിയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വികാരത്തെ മുഖത്ത് കൂട്ടിയും കുറച്ചും പ്രതിഫലിപ്പിക്കുന്നതിന് സഹായിക്കുന്നതെന്ന് അറിയുകയില്ല എങ്കിലും കലാകാരന്മാർ തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതൊരു രസകരമായ ശാസ്ത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളെ തേടിപ്പിടിച്ച് വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വികാരങ്ങൾ ഈ മാംസപേശികളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ രസകരമായിരിക്കും മനുഷ്യരുടെ രേഖാചിത്രം മാത്രമല്ല നിങ്ങൾ ഒരു ഡാൻസർ ഡാൻസ് കളിക്കുന്നത് നിരീക്ഷിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ആ കളിക്കാരന്റെ ഭാവപ്രകടനവും അദ്ദേഹത്തിൻറെ മുഖഭാവവും ഈ ലൈവ് പ്രോഗ്രാമിൽ നമ്മൾ കണ്ടു നിങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യം കാണിച്ചുതരാം ഇതൊരു കലാപരമായ അവതരണം അല്ല ഈ ക്ലിപ്പ് ഞാൻ എടുത്തത് ഒരു വാർത്ത അവതരണത്തിൽ നിന്നാണ് ഒരു പ്രത്യേക ഗോത്ര സമൂഹത്തിൽ പെട്ട ആളുകൾക്ക് അവർ ജീവിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തുനിന്നും മാറി പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു കാരണം അവർ ജീവിക്കുന്ന ആ പ്രദേശത്ത് ഒരു ഡാം പണിയാൻ പോവുകയാണ് അവരുടെ മുഖത്തുള്ള ഭാവപ്രകടനങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ നമ്മൾ ക്ലാസ് ആരംഭിച്ചത് ഒരു വീഡിയോയിലൂടെയാണ് ആ വീഡിയോയിൽ ഒരു കലാകാരൻ ഒരു മുഖത്തെ ഭാവത്തെ വ്യത്യാസപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരുന്നു നമ്മുടെ ക്ലാസ്സ് അവസാനിപ്പിക്കുന്നത് വീണ്ടുമൊരു വീഡിയോയിലൂടെയാണ് ഇതൊരു തരം ഡോക്യുമെൻററി ആണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലെ ഒരു പ്രിയപ്പെട്ട ആളുടെ മരണത്തിൽ നിങ്ങൾ കരയുന്ന രീതിപോലും സാംസ്കാരികമായി നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ആളുകൾ പ്രകടിപ്പിക്കുന്ന രീതി മാംസപേശികൾക്ക് ആ പ്രകടനത്തിൽ ഉള്ള പങ്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു സാമൂഹിക പ്രശ്നം വരുമ്പോൾ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നും ഇതിന്റെല്ലാം ഒരു സങ്കരമായ അവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ നോക്കൂ എന്നിട്ട് മനസ്സിലാക്കൂ സംസ്കാരത്തിന് വികാര പ്രകടനങ്ങളുടെ മേലുള്ള സ്വാധീനം നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മൾ കരയുന്നു സ്ത്രീകൾ കരയുന്നു ഇതിന്റെല്ലാം മാതൃക സാംസ്കാരികമായി നയിക്കപ്പെട്ടിട്ടുള്ളതാണ് വാസ്തവത്തിൽ നിങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിന്റെ നിമിഷങ്ങളാണ് ആ കുടുംബത്തിലെ അംഗങ്ങൾ യഥാർത്ഥത്തിൽ കരയുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന്റെ മരണത്തിൽ അവരുടെ വികാരത്തെ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ കാണണം എങ്ങനെയാണ് ഒരു സമൂഹത്തിൻറെ സംസ്കാരം അവരുടെ കരച്ചിലിന്റെ രീതിയെ പോലും സ്വാധീനിക്കുന്നത് എന്ന് ഈ രണ്ടു വീഡിയോയിലും അവർ എങ്ങനെയാണ് അവരുടെ സങ്കടം പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത് എന്ന് ഒന്ന് സൂക്ഷിച്ചു മനസ്സിലാക്കണം